ഇപ്പോൾ ഗ്ലോബൽ റൂട്ടിംഗിനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കാം ഞങ്ങളുടെ മുൻ പ്രഭാഷണങ്ങളിൽ നമ്മുടെ കഴിഞ്ഞ ലെക്ച്ചറിൽ നമ്മൾ മെസ് അല്ലെങ്കിൽ ഏരിയ റൂട്ടിങ്ങ്നെ നോക്കി അവിടെ 2 ഡിമെൻഷനൽ സ്ഥലത്തെ 2 പോയിന്റ്കളെ കണക്ട് ചെയ്തിട്ടുണ്ട് മുഴുവൻ പാതയും ഒരൊറ്റ ലയേറിൽ ആയിരുന്നു എന്നാൽ ഇവിടെ ആഗോള റൂട്ടിംഗിലും തുടർന്നുള്ള വിശദമായ റൂട്ടിംഗിലും അത്തരം നിയന്ത്രണങ്ങൾ ഇല്ല പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഒന്നിലധികം ലെയറുകൾ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നു അതിനാൽ ആഗോള റൂട്ടിംഗും വിശദമായ റൂട്ടിംഗും അവ സ്വതന്ത്രമല്ല അവ കൈകോർക്കുന്നു വ്യത്യസ്തമായി നിങ്ങൾ ചർച്ച ചെയ്ത ഗ്രിഡ് റൂട്ടിംഗ് അൽഗോരിതങ്ങൾ ആഗോള അല്ലെങ്കിൽ വിശദമായ റൂട്ടിംഗുമായി നേരിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചില പ്രശ്നങ്ങൾ നേരിടുമ്പോഴെല്ലാം ഞങ്ങൾ ഏരിയ റൂട്ടിംഗ് ഉപയോഗിക്കുന്നു കാരണം കണക്റ്റുചെയ്യാൻ അത്ര എളുപ്പമല്ലാത്ത 2 പോയിന്റുകൾക്കിടയിൽ നിങ്ങൾക്ക് പാത കണ്ടെത്താനാകുന്ന ഒന്നായി ഏരിയ റൂട്ടിംഗ് കണക്കാക്കപ്പെടുന്നു അതിനാൽ ഒരു പാത നിലവിലുണ്ടെങ്കിൽ അത് പാത കണ്ടെത്തും എന്നാൽ ഈ രീതിയുടെ വിശദാംശങ്ങളിലോ ഏരിയ റൂട്ടിംഗിലോ ഞങ്ങൾ അടിസ്ഥാനപരമായി രൂപകൽപ്പനയുടെയോ ലേഔട്ടിന്റെയോ ചെറിയ പാതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കൂടാതെ നിങ്ങൾ റൂട്ടിംഗ് പ്രശ്നം വർദ്ധിച്ച രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഈ രണ്ടിന്റെയും അടിസ്ഥാന ലക്ഷ്യങ്ങൾ നോക്കാം ഗ്ലോബൽ റൂട്ടിംഗ് എന്നത് റൂട്ടിംഗ് മേഖലകൾ നിർവ്വചിക്കുന്ന ഒരു ഘട്ടമാണ് ഓരോ നെറ്റിനും ഞങ്ങൾ ഒരു താൽക്കാലിക റൂട്ട് സൃഷ്ടിക്കുന്നു പിന്തുടരേണ്ട കൃത്യമായ റൂട്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു നഗരത്തിൽ നിന്ന് a നഗരത്തിലേക്ക് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ താൽക്കാലിക റൂട്ടുകൾ നൽകാം നിങ്ങൾ ആദ്യം പട്ടണത്തിലേക്ക് പോകുക തുടർന്ന് ടൌൺ x ലേക്ക് പോകുക അവിടെ നിന്ന് നിങ്ങൾക്ക് നഗരം b യിലേക്ക് പോകാം എന്നാൽ നിങ്ങളുടെ നഗരങ്ങളിലേക്ക് പോകാൻ ഏത് റോഡോ പട്ടണമോ പിന്തുടരണമെന്ന് ഞാൻ കൃത്യമായി പറയുന്നില്ല അവിടെ പോകാൻ ഒന്നിലധികം വഴികൾ ഉണ്ടാകാം പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു താൽക്കാലിക റൂട്ട് നൽകുന്നു ഇതാണ് ആഗോള റൂട്ടിംഗ് ഞാൻ താൽക്കാലിക റൂട്ട് മാത്രമേ വ്യക്തമാക്കൂ ഈ ഘട്ടത്തിൽ ഞാൻ കൃത്യമായ വയറുകൾ ലേഔട്ട് ചെയ്യുന്നില്ല അതിനാൽ ഓരോ ഇന്റർകണക്ഷൻ നെറ്റും ഈ ഘട്ടത്തിൽ ഒരു കൂട്ടം റൂട്ടിംഗ് മേഖലകളിലേക്ക് നിയോഗിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥ വയർ ലേഔട്ടുകൾ വ്യക്തമാക്കുന്നില്ല അതിനാൽ വിശദമായ റൂട്ടിംഗിലെന്നപോലെ ഞങ്ങൾ യഥാർത്ഥത്തിൽ പരസ്പരബന്ധങ്ങൾ പൂർത്തിയാക്കുന്നു അതിനാൽ പ്രദേശം അനുസരിച്ച് ഞങ്ങൾ ഈ പ്രശ്നം സാധാരണയായി പരിഗണിക്കുന്നു കൂടാതെ എല്ലാ വയർ ലേഔട്ടുകളും ലംബമായും തിരശ്ചീനമായും പൂർത്തിയാക്കി ഓരോ പ്രദേശങ്ങളും പരിഹരിക്കുന്നു ഇതാണ് വിശദമായ റൂട്ടിംഗ് ചെയ്യുന്നത് അതിനാൽ 2 തരത്തിലുള്ള വിശദമായ റൂട്ടിംഗ് ഉപ പ്രശ്നങ്ങൾ ചാനൽ റൂട്ടിംഗും സ്വിച്ച് ബോക്സ് റൂട്ടിംഗും പിന്നീട് നോക്കാം ഇപ്പോൾ ഇത് ഒരു ഉദാഹരണം മാത്രം ഇവിടെ നിങ്ങൾ ചില ബ്ലോക്കുകൾ കാണുന്നു ഈ ഡോട്ട് ഇട്ട പോയിന്റുകൾ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ആഗോള റൂട്ടിംഗിൽ ഇവിടെ ചില പരുക്കൻ പാതകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഉദാഹരണത്തിന് ഇവിടെ പോയിന്റ് ഇവിടെ പോയിന്റ് എന്ന് ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ ഏകദേശം ഈ പാത പിന്തുടരണമെന്ന് അത് പറയുന്നു നിങ്ങൾ ഈ പാത പിന്തുടരുക എന്നതായിരുന്നു മറ്റൊരു പോംവഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാത പിന്തുടരാമായിരുന്നു അതിനാൽ ആഗോള റൂട്ടിംഗ് ഇത് ചെയ്യുന്നു ആഗോള റൂട്ടിംഗ് പ്രക്രിയ നടക്കുന്നതിനാൽ ഈ പരുക്കൻ കണക്ഷനുകൾ ഓരോന്നും തിരശ്ചീനവും ലംബവുമായ സെഗ്മെന്റുകളിലേക്ക് മാപ്പ് ചെയ്യുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇവിടെ കാണിച്ചിരിക്കുന്ന പരിഹാരം 2 ലെയർ റൂട്ടിംഗ് സൊല്യൂഷനാണ് എന്നാൽ തിരശ്ചീന രേഖകൾ ഒരു ലെയറിൽ സ്ഥാപിച്ചിരിക്കുന്നു ലംബ വരകൾ മറ്റൊരു ലെയറിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെയുള്ള ഏത് ക്രോസിംഗും വയർ കണക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിനോട് യോജിക്കുന്നു അതായത് ഇത് 2 ലോഹ പാളികൾ തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ ഈ വിശദമായ റൂട്ടിംഗ് പ്രശ്നം 2 സമാന്തര പ്രതലങ്ങൾക്കിടയിലുള്ള റൂട്ടിംഗ് അല്ലെങ്കിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന പോയിന്റുകളായി തിരിച്ചറിയാൻ കഴിയും ഇതിനെ ചാനൽ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ 4 വശങ്ങളിലും പിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു അടച്ച പ്രദേശം ഉള്ളത് പോലെയുള്ള ഒരു പ്രശ്നം നിങ്ങൾ പരിഗണിക്കുന്നു ഇതിനെ സ്വിച്ച് ബോക്സ് എന്ന് വിളിക്കുന്നു ഇത് ഒരു സ്വിച്ച് ബോക്സ് റൂട്ടിംഗ് ആകാം ഇനി നമുക്ക് റൂട്ടിംഗ് റീജിയണുകൾ എന്ന ആശയത്തിലേക്ക് വരാം പരസ്പരം ബന്ധിപ്പിക്കുന്ന വയറുകൾ സ്ഥാപിച്ചിരിക്കുന്നവയാണ് റൂട്ടിംഗ് മേഖലകൾ ഈ പ്രദേശത്തെ എങ്ങനെ നിർവചിക്കാം എന്നതാണ് ഇപ്പോൾ ചോദ്യം ഞാനൊരു ഉദാഹരണമെടുക്കാം എനിക്ക് ഒരു ചതുരാകൃതിയിലുള്ള ലേഔട്ട് ഉപരിതലമുണ്ടെന്ന് പറയട്ടെ അവിടെ ഞാൻ ഇതുപോലെ ചില ബ്ലോക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെ ഒരു ബ്ലോക്ക് എന്നും ഇവിടെ ഒരു ബ്ലോക്ക് എന്നും പറയാം ഇപ്പോൾ ഒരിക്കൽ ഞാൻ അത് സ്ഥാപിച്ചു അതിനാൽ റൂട്ടിംഗിനായി ചില പ്രദേശങ്ങൾ നിർവചിക്കാം ഏകദേശം ഇത് ഒരു മേഖലയാണെന്ന് ഞാൻ കാണിക്കുന്നു ഇത് ഒരു പ്രദേശമാണ് ഇത് ഒരു പ്രദേശമാണ് ഇത് ഒരു പ്രദേശമാണ് ഇത് ഒന്ന് ഇത് ഒന്ന് ഇതുകൂടാതെ നിങ്ങൾക്ക് ഇത് പ്രദേശങ്ങളായും ഉപയോഗിക്കാം കാരണം നിങ്ങൾക്ക് ഈ വശത്തിലൂടെ കണക്ഷനുകൾ ഉണ്ടാക്കാനും കഴിയും ഇവയെല്ലാം റൂട്ടിംഗ് മേഖലകളാണ് ഇപ്പോൾ നിങ്ങളുടെ കണക്ഷനുകൾ 3 വ്യത്യസ്ത വശങ്ങളിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ നോക്കൂ ചില വയറുകൾ മുകളിൽ നിന്ന് വരാം ചിലത് താഴെ നിന്ന് ചിലത് ഈ വശത്ത് നിന്ന് ചിലത് ഇവിടെ പിന്നിൽ നിന്ന് അതിനാൽ ഇത് 4 വശങ്ങളിൽ നിന്നും പിന്നുകൾ വരുന്ന തരത്തിലുള്ള ഒരു സ്വിച്ച് ബോക്സ് പ്രശ്നമാകാം എന്നാൽ ഇവിടെയുള്ള ചില പിന്നുകളും ഇവിടെയുള്ള ചില പിന്നുകളും ബന്ധിപ്പിക്കേണ്ട ഒരു സമാന്തര പാളി നിങ്ങൾക്ക് ഉള്ളത് പോലുള്ള പ്രശ്നമാണിത് ഇത് ചാനൽ ആണ് ഇതൊരു തിരശ്ചീന ചാനലാണ് ഇതൊരു ലംബ ചാനലാണ് അതിനാൽ റൂട്ടിംഗ് മേഖലകളുടെ തരങ്ങൾ ഒന്നുകിൽ തിരശ്ചീന ചാനൽ ആകാം അത് x അക്ഷത്തിന് സമാന്തരമായി മുകളിലും താഴെയുമുള്ള അതിരുകളിലുള്ള വലകളുമായി ബന്ധപ്പെട്ട പിന്നുകളായിരിക്കും വെർട്ടിക്കൽ ചാനൽ അതിന്റെ തൊണ്ണൂറ് ഡിഗ്രി റൊട്ടേറ്റഡ് പതിപ്പാണ് ഇത് ഇടത്തോട്ടും വലത്തോട്ടും ഉള്ള y ആക്സിസ് പിന്നുകൾക്ക് സമാന്തരമാണ് സ്വിച്ച് ബോക്സ് 4 വശങ്ങളിൽ നിന്നും പിൻ വരുന്ന ഒരു ദീർഘചതുരാകൃതിയിലുള്ള പ്രദേശമാണ് 3 ൽ കൂടുതൽ സങ്കീർണ്ണമായ ഉപ പ്രശ്നമാണിത് തിരശ്ചീനവും ലംബവുമായ ചാനൽ റൂട്ടിംഗ് പ്രശ്നം ഒന്നുതന്നെയാണെന്ന് പറയുക ഇത് വെറും 90 ഡിഗ്രി റൊട്ടേഷൻ മാത്രമാണ് ആഗോള റൂട്ടിംഗ് ഘട്ടത്തിൽ റൂട്ടിംഗ് പ്രദേശങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ പ്രധാന ഘട്ടം അതിനാൽ റൂട്ടിംഗ് പ്രദേശങ്ങൾ സാധാരണയായി പിന്നീട് എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം മിക്ക ഡിസൈൻ ശൈലികൾക്കും റൂട്ടിംഗ് മേഖലകൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ശേഷിയില്ല ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു സാധാരണ സെല്ലിലെന്നപോലെ ബ്ലോക്കുകൾ ചലിപ്പിക്കാം ഈ സെല്ലുകൾ വരികളായി ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ ചാനലിനായി നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം പര്യാപ്തമല്ലെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും 2 ബ്ലോക്കുകൾ അൽപ്പം അകലെ നീക്കാവുന്നതാണ് നിങ്ങൾക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുന്നത്ര സ്ഥലം ആവശ്യമില്ല എന്നതിനർത്ഥം നിങ്ങൾക്ക് അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാണ് അതിനാൽ ചാനലുകളുടെ വീതി സാഹചര്യത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് കൂടാതെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് റൂട്ടിംഗ് പ്രദേശങ്ങൾ പരിഗണിക്കുന്ന ക്രമവും പ്രധാനമാണ് കാരണം റൂട്ടിംഗ് മേഖലകൾ പരിഗണിക്കപ്പെടുന്ന ക്രമത്തെ ആശ്രയിച്ചിരിക്കും മൊത്തത്തിലുള്ള റൂട്ടിംഗ് ഗുണനിലവാരവും സങ്കീർണ്ണതയും ചാനൽ ജംഗ്ഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 3 തരം ചാനൽ ജംഗ്ഷനുകൾ ലേഔട്ടിൽ സംഭവിക്കുന്നു നിങ്ങൾ കാണുന്ന എൽ ടൈപ്പ് എന്നാണ് ആദ്യം പറയുന്നത് സ്ഥാപിച്ചിരിക്കുന്ന ബ്ലോക്കാണിത് ഇവിടെ ലംബമായ ഓറിയന്റേഷൻ ഒരു ചാനൽ ഉണ്ട് ഇവിടെ ഒരു ചാനൽ ഉണ്ട് തിരശ്ചീന ഓറിയന്റേഷൻ 2 ചാനലുകൾ ഒരു L ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ഒരു L പോലെ കാണപ്പെടുന്നു ഇതാണ് L തരം ചാനൽ ഇത് സാധാരണയായി ലേഔട്ട് സർക്കിളുകളുടെ കോണുകളിൽ സംഭവിക്കുന്നു അതിനാൽ ഇവിടെ ക്രമപ്പെടുത്തൽ പ്രധാനമല്ല ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യം ലംബമായും പിന്നീട് തിരശ്ചീനമായോ വിപരീതമായോ റൂട്ട് ചെയ്യാം കൂടാതെ ലളിതമായ ചാനൽ റൂട്ടിംഗ് അൽഗോരിതങ്ങൾ ഇതിനായി ഉപയോഗിക്കാം നിങ്ങൾ ഈ അൽഗോരിതങ്ങൾ പിന്നീട് കാണും T ടൈപ്പ് എന്നാൽ ഈ വിശാലമായ ബ്ലോക്കും അതിനു താഴെയുള്ള 2 ചെറിയ വീതിയുള്ള ബ്ലോക്കുകളും അർത്ഥമാക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ചാനൽ ഉണ്ട് ഇവിടെ ഒരു ചാനലുണ്ട് 2 തിരശ്ചീന ചാനലുകളും ഒരു ലംബ ചാനലും ഇവിടെയുണ്ട് അതിനാൽ ടിയിൽ നിന്നുള്ള 3 ചാനലുകൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആശയം ഇവിടെ ചാനലിന്റെ കാൽ എന്ന ആശയം അതായത് ഈ ലംബ ചാനൽ ആദ്യം റൂട്ട് ചെയ്യണം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇതൊരു തടസ്സമാണ് ഇത് ഒരു തടസ്സമാണെന്ന് പറയട്ടെ ചില സെല്ലുകൾ ഉണ്ട് ഇവയാണ് നിങ്ങൾ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില പിന്നുകൾ ഇതാണ് ചില പിന്നുകൾ ഇവിടെയുണ്ട് ചില പിന്നുകൾ ഇവിടെയുണ്ട് ചില പിന്നുകൾ ഇവിടെയുണ്ട് ആദ്യം നമ്മൾ T യുടെ ഈ ലെഗ് പരസ്പരം ബന്ധിപ്പിക്കുന്നു പറയാം നമ്മൾ ഈ പോയിന്റുകളെ ബന്ധിപ്പിക്കുന്നു അതിനാൽ ഈ പോയിന്റുകൾ ഇവിടെ വിപുലീകരിക്കാം കാരണം അവ മറ്റ് പോയിന്റുകളുമായി ബന്ധിപ്പിച്ചേക്കാം ഇതായിരിക്കും ഇതും ഇവിടെ കണക്റ്റുചെയ്യുന്നു ഇതും ഇവിടെ നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ ചാനൽ ബന്ധിപ്പിക്കേണ്ടതിന്റെ കാരണം ആദ്യം നിങ്ങൾ ഇത് പൂർത്തിയാക്കിയാൽ ഈ 3 സിഗ്നലുകളുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിനാൽ ഇപ്പോൾ ഈ മുഴുവൻ ചാനലും ഒരു അടങ്ങാത്ത ചാനൽ റൂട്ടിംഗ് പ്രശ്നം പോലെ കാണപ്പെടുന്നു മുകളിൽ ലൊക്കേഷനിൽ ഉറപ്പിച്ചിരിക്കുന്നു താഴെയുള്ള ലൊക്കേഷനിൽ എന്നാൽ നിങ്ങൾ ഇത് ആദ്യം പരിഗണിക്കുന്നില്ലെങ്കിൽഅല്ലാത്തപക്ഷം നിങ്ങൾ ഇത് ആദ്യം പരിഗണിക്കുകയാണെങ്കിൽ മധ്യത്തിൽ ഈ സിഗ്നലിന്റെ കൃത്യമായ സ്ഥാനം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ഇത് ആകാം ഇവിടെ അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് പോയിന്റുകൾ ഇതുപോലെ റൂട്ട് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇത് റൂട്ട് ചെയ്യാം നിങ്ങൾക്ക് റൂട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഒരുപക്ഷേ ഇതിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ ഒരു ടി ജംഗ്ഷന് ആദ്യം ടി യുടെ കാലും പിന്നീട് തോളും റൂട്ട് ചെയ്യണം എന്നാൽ ഇവിടെയുള്ള ഒരു പ്ലസ് ടൈപ്പിന് ഇതുപോലെ 4 ബ്ലോക്കുകൾ ഉള്ളപ്പോൾ നിങ്ങൾ ഇവിടെ സെൻട്രൽ പോയിന്റ് കാണുന്നു 4 വശങ്ങളിൽ നിന്നും പിൻസ് വരുന്നു ഇത് സ്വിച്ച് ബോക്സ് റൂട്ടിംഗ് പ്രശ്നമാണ് നിങ്ങൾ സ്വിച്ച് ബോക്സ് റൂട്ടറുകൾ മാത്രം ഉപയോഗിക്കുക അതിനാൽ പ്ലെയ്സ്മെന്റ് സമയത്തും നിങ്ങൾ കാണുന്നു സ്വിച്ച്ബോക്സ് പ്രശ്നങ്ങൾ ദൃശ്യമാകാതിരിക്കാൻ ബ്ലോക്കുകൾ ഈ രീതിയിൽ സ്ഥാപിക്കുന്നത് നല്ലതാണ് കാരണം സ്വിച്ച് ബോക്സ് റൂട്ടിംഗ് പ്രശ്നവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചാനൽ റൂട്ടിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വളരെ ലളിതമാണ് അതിനാൽ അത്തരം സ്വിച്ച്ബോക്സ് തരം പ്രദേശങ്ങൾ ദൃശ്യമാകാത്ത വിധത്തിൽ നിങ്ങളുടെ പ്ലേസ്മെന്റ് അൽപ്പം മാറ്റാനോ പരിഷ്ക്കരിക്കാനോ കഴിയുമെങ്കിൽ നിങ്ങളുടെ റൂട്ടിംഗ് പ്രശ്നം ലളിതമാകും ചില ഡിസൈൻ ശൈലി പ്രത്യേക പ്രശ്നങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് പൂർണ്ണ ഇഷ്ടാനുസൃത ഡിസൈൻ ശൈലിയിൽ പ്രശ്ന രൂപീകരണം ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തതിന് സമാനമാണ് അതിനാൽ ചാനൽ സ്വിച്ച്ബോക്സുകൾ ചാനൽ ജംഗ്ഷനുകൾ എൽ ടൈപ്പ് ടി ടൈപ്പ് പ്ലസ് ടൈപ്പ് എന്നിങ്ങനെ എല്ലാ തരത്തിലുമുള്ള റൂട്ടിംഗ് മേഖലകളും ഉണ്ടാകാം ചാനലുകൾ വിപുലീകരിക്കാമെന്ന് ഞാൻ സൂചിപ്പിച്ചു ചില ബ്ലോക്കുകൾ ഇവിടെ നീക്കും അതിനാൽ ചാനൽ കപ്പാസിറ്റിയിൽ ചില ലംഘനങ്ങൾ അനുവദിക്കാം പക്ഷേ വലിയ ലംഘനങ്ങൾ അനുവദനീയമല്ല കാരണം എനിക്ക് ഒരു ബ്ലോക്ക് വളരെയധികം നീക്കേണ്ടിവരുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മറ്റ് ബ്ലോക്കുകൾ അസ്വസ്ഥമായേക്കാം അതിനാൽ ചില പ്ലെയ്സ്മെന്റിൽ കാര്യമായ മാറ്റം ആവശ്യമായി വന്നേക്കാം സ്റ്റാൻഡേർഡ് സെല്ലുണ്ട് അതിനാൽ ഒരു സാധാരണ സെല്ലിൽ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ സെല്ലുകൾ വരികളിലായി സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ പ്ലേസ്മെന്റ് പൂർത്തിയാക്കിയ ശേഷം ഓരോ സെല്ലിന്റെയും സ്ഥാനം ഉറപ്പിക്കും ഓരോ ഫീഡിന്റെയും കപ്പാസിറ്റർ സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ ഫീഡ് എന്താണെന്ന് ഞാൻ പരാമർശിക്കുന്നത് ഓർക്കുക മുകളിൽ നിന്നുള്ള കണക്ഷനെ താഴേക്ക് പോകാൻ അനുവദിക്കുന്ന ചില പ്രത്യേക സ്റ്റാൻഡേർഡ് സെല്ലുകളാണ് ഫീഡ് ത്രൂ അതുവഴി വരികളിലുടനീളം നിങ്ങൾക്ക് ഒരു കണക്ഷൻ എടുക്കാനും നിങ്ങൾക്ക് ബന്ധിപ്പിക്കാനും കഴിയും അവ കോശങ്ങളിലൂടെയുള്ള തീറ്റയാണ് അതിനാൽ അത് പറയുന്നത് പ്ലേസ്മെന്റിന് ശേഷം നിങ്ങൾ ഇതിനകം തന്നെ സെല്ലുകളിലൂടെ ഫീഡ് സ്ഥാപിച്ചു എന്നതാണ് കൂടാതെ സെല്ലുകളിലൂടെയുള്ള ഫീഡിന് സെല്ലുകളിലൂടെ എത്ര വയറുകൾ പ്രവർത്തിപ്പിക്കാം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില ശേഷിയുണ്ട് എന്നാൽ നിങ്ങളുടെ റൂട്ടിംഗ് പ്രശ്നം അത്രയും ഫീഡ് ത്രൂ ഉപയോഗിച്ച് റൂട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത തരത്തിലാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരു പ്രശ്നത്തിലാണ് നിങ്ങൾ വീണ്ടും മടങ്ങുകയും ഫീഡ് വഴി മാറ്റുകയും വീണ്ടും റൂട്ടിംഗിലേക്ക് മടങ്ങുകയും വേണം ആദ്യത്തെ സ്റ്റാൻഡേർഡ് സെല്ലിൽ ലംബ ചാനലുകളൊന്നുമില്ല തിരശ്ചീന ചാനലുകൾ മാത്രം വീണ്ടും നിങ്ങൾക്ക് വരികൾ നീക്കാൻ കഴിയും അങ്ങനെ ഉയരങ്ങൾ ക്രമീകരിക്കാൻ കഴിയും അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫീഡ് ത്രൂകൾ പര്യാപ്തമല്ലെങ്കിൽ റൂട്ടിംഗ് പരാജയപ്പെടാം കൂടാതെ ഈ സെൽ റൂട്ടിംഗ് ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്യുന്ന ഒരു രീതിയാണ് അത് ചാനലിന്റെ ഉയരം കൂടുതൽ കുറയ്ക്കാൻ ഉപയോഗിക്കാം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം പോലെ ഇവ സ്റ്റാൻഡേർഡ് സെൽ വരികളാണ് കൂടാതെ വരികളിലുടനീളമുള്ള ചില പരസ്പരബന്ധങ്ങൾ ഇതിനകം ചെയ്തുകഴിഞ്ഞു അതിനാൽ ഇവിടെ സെല്ലിലൂടെ ഒരു ഫീഡ് ഉണ്ടായിരുന്നു ഇവിടെ സെല്ലിലൂടെ ഒരു ഫീഡ് രണ്ട് മാത്രം എന്നാൽ കൂടാതെ നിങ്ങൾ A B എന്നിവ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് കരുതുക അതിനാൽ നിങ്ങൾക്കില്ല മറ്റൊരു ഫീഡ് ലഭ്യമാണ് അതിനാൽ ഈ റൂട്ടിംഗ് പരാജയപ്പെടും അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതായത് ഒന്നുകിൽ നിങ്ങളുടെ പ്ലെയ്സ്മെന്റ് നല്ലതല്ല ഈ ബ്ലോക്ക് ഇവിടെ സ്ഥാപിക്കണമായിരുന്നു അല്ലെങ്കിൽ സെല്ലിലൂടെയുള്ള ഒരു ഫീഡ് കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കണം അങ്ങനെ നിങ്ങൾക്ക് റൂട്ടിംഗ് പൂർത്തിയാക്കാനാകും ഇപ്പോൾ ഇത് ഒരു പ്രശ്നമാണ് ഗേറ്റുകളുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന ഗേറ്റ് അറേകൾക്ക് പോലും അവയ്ക്കിടയിൽ അനുവദനീയമായ ഇന്റർകണക്ഷൻ ലൈനുകളുടെ എണ്ണവും നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ റൂട്ടിംഗ് ചാനലുകളും ശേഷികളും നിശ്ചയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് റൂട്ടബിലിറ്റി ഈ സെല്ലുകൾക്കിടയിൽ സമാന്തര ഇന്റർകണക്ഷൻ ട്രാക്കുകളിലേക്ക് ഓടാനുള്ള പാത മാത്രമാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നു ഇതിനകം ഇതുപോലുള്ള ചില കണക്ഷനുകൾ ഉണ്ട് ഇത് കാണിക്കുന്ന ചുവന്ന കണക്ഷൻ പരാജയപ്പെടും നിങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല കാരണം ഇതിന് മൂന്നാമത്തെ ട്രാക്ക് ശരിയായിരിക്കണം അതിനാൽ വീണ്ടും ഗേറ്റ് അറേയ്ക്കായി നിങ്ങളുടെ പ്ലെയ്സ്മെന്റ് മതിയായതായിരിക്കണം അതുവഴി നിങ്ങളുടെ റൂട്ടിംഗ് പൂർത്തിയാക്കാനാകും അതിനാൽ ആഗോള റൂട്ടിംഗിൽ ഞങ്ങൾ ചില ഗ്രാഫ് തിയറി അടിസ്ഥാനമാക്കിയുള്ള മോഡലുകൾ ഉപയോഗിക്കുന്നു അതിനാൽ പ്രശ്നം മാതൃകയാക്കാനും പ്രദേശങ്ങൾ തിരിച്ചറിയാനും ഇത് ഉപയോഗിക്കാം അതിനാൽ പ്രധാനപ്പെട്ട ചില ഗ്രാഫ് മോഡലുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു നമ്മൾ അവയിലേക്ക് നോക്കും ഗ്രിഡ് ഗ്രാഫ് മോഡൽ ഗ്രിഡ് റൂട്ടിംഗിന് കൂടുതൽ അനുയോജ്യമാണ് എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കും ഏരിയ അല്ലെങ്കിൽ ഗ്രിഡ് റൂട്ടിംഗിന് ഇത് കൂടുതൽ അനുയോജ്യമാണ് ചെക്കർ ബോർഡ് മോഡലും സമാനമാണ് എന്നാൽ ചാനൽ ഇന്റർസെക്ഷൻ ഗ്രാഫ് ആഗോള റൂട്ടിംഗിന് ഏറ്റവും അനുയോജ്യമായതും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ഒന്നാണ് ഈ ഡാറ്റ ഘടനകൾ ഓരോന്നായി നോക്കാം ഗ്രിഡ് ഗ്രാഫ് മോഡൽ യഥാർത്ഥത്തിൽ ലീയുടെ അൽഗോരിതംLee's algorithm പോലെ മേസ് റൂട്ടിംഗ് അൽഗോരിതത്തിനായി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ 2 ഡൈമൻഷണൽ ഗ്രിഡ് പാറ്റേൺ മാതൃകയാക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് ഒരു കൂട്ടം സെല്ലുകൾ ഉണ്ടായിരുന്നു m by n ഓരോ സെല്ലിലും ചില വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു അവ പ്രതിനിധീകരിക്കുന്നത് തടസ്സമോ മറ്റോ ആണ് അതിനാൽ ഗ്രിഡ് ഗ്രാഫ് മാതൃകയിൽ ലേഔട്ട് ചതുര സെല്ലുകളുടെയോ ഗ്രിഡിന്റെയോ ശേഖരമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഓരോ സെല്ലും ci ഒരു വെർട്ടെക്സ് vi യെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രാഫ് ഞങ്ങൾ നിർവ്വചിക്കുന്നു അനുബന്ധ സെല്ലുകൾ തൊട്ടടുത്ത് വലതുവശത്താണെങ്കിൽ 2 ലംബങ്ങൾ ഒരു അരികിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ സെല്ലിലെ ഒരു ടെർമിനൽ ci എന്ന് കരുതുക എനിക്ക് ci ൽ നിന്ന് പോയിന്റ് കണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് ടെർമിനൽ അനുബന്ധ വെർട്ടെക്സ് vi ലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു ചില സെല്ലുകളിൽ 2 തരം വെർട്ടിസുകൾ ഉണ്ട് അവ പൂരിപ്പിച്ച സർക്കിളുകളായി പ്രതിനിധീകരിക്കുന്നു എന്നാൽ നിങ്ങൾ ഉദാഹരണം കാണിച്ചിരിക്കുന്നതുപോലെ ആളില്ലാത്ത സെല്ലുകളെ വ്യക്തമായ സർക്കിളുകളായി പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ ഈ മാതൃകയിൽ ഓരോ എഡ്ജിന്റെയും ശേഷിയും നീളവും 1 ആണെന്ന് അനുമാനിക്കപ്പെടുന്നു അതിനാൽ ഓരോ 2 ടെർമിനൽ നെറ്റിനും അനുബന്ധ ലംബങ്ങൾക്കിടയിൽ ഒരു പാത കണ്ടെത്തുക എന്നതാണ് ചുമതല നമുക്ക് ഇതുപോലെ ഒരു ഉദാഹരണം എടുക്കാം അതുകൊണ്ട് ഷേഡുള്ള പ്രദേശങ്ങൾ തടസ്സങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇതുപോലെയുള്ള ഒരു 2 ഡൈമൻഷണൽ ഗ്രിഡ് എനിക്കുണ്ട് അതിനാൽ എനിക്ക് ഇത് ഒരു ഗ്രാഫിലേക്ക് മാപ്പ് ചെയ്യാൻ കഴിയും കാരണം ഓരോ പ്രദേശവും ഒരു ശീർഷവുമായി പൊരുത്തപ്പെടുന്നു അടുത്തുള്ള പ്രദേശങ്ങൾ ഒരു അരികിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു തടസ്സങ്ങളെ സോളിഡ് വെർട്ടീസുകളാൽ സൂചിപ്പിക്കുന്നു ഈ സെല്ലിൽ നിന്ന് ഈ സെല്ലിലേക്കും ഈ സെല്ലിലേക്കും ഈ സെല്ലിലേക്കും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഗ്രാഫിൽ ഈ ശീർഷത്തെയും ഈ ശീർഷത്തെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഗ്രാഫ് സൈദ്ധാന്തിക ഉപ പ്രശ്നം ഈ ഗ്രാഫിലൂടെ ഈ സോളിഡ് വെർട്ടീസുകളിലൂടെ കടന്നുപോകാതെ ഒരു പാത കണ്ടെത്തുക എന്നതാണ് നിങ്ങളെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പാത കണ്ടെത്തുക അതിനാൽ ഇത്തരമൊരു പാത നിങ്ങൾക്ക് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു പാത കണ്ടെത്തി അതിനാൽ ഇത് പരിഹരിക്കാൻ ലീയുടെ അൽഗോരിതം അല്ലെങ്കിൽ ഹാഡ്ലോക്കിന്റെ അൽഗോരിതം Hadlock's algorithm പോലെയുള്ള ഏത് ഏരിയ റൂട്ടിംഗ് അൽഗോരിതം ഉപയോഗിക്കാം ഇപ്പോൾ ചെക്കർ ബോർഡ് മോഡൽ കൂടുതൽ ഏരിയ കാര്യക്ഷമമാണ് ഫിക്സ് സൈസ് സെല്ലുകളുടെയോ ഗ്രിഡുകളുടെയോ ഒരു ഏകീകൃത ശ്രേണിയായിട്ടല്ല ഇത് ലേഔട്ടിനെ ഏകദേശം കണക്കാക്കുന്നത് എന്നാൽ ഒരു കോഴ്സ് ഗ്രിഡ് എന്ന നിലയിൽ ചില ഗ്രിഡ് വലുതായിരിക്കാം ചില ഗ്രിഡ് ചെറുതായിരിക്കാം കൂടാതെ 2 ബ്ലോക്കുകൾക്കിടയിലുള്ള എഡ്ജ് കപ്പാസിറ്റി വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് 2 ബ്ലോക്കുകൾ ഉണ്ട് ഇതുപോലെ ഒരു ബ്ലോക്ക് ഉണ്ടാകാം അതിനാൽ 2 സാഹചര്യങ്ങൾ ഞാൻ കാണിക്കുന്നു ഇവ 2 ബ്ലോക്കുകളാണ് ഇത് ഒരു സാഹചര്യമാണ് മറ്റൊരു സാഹചര്യം ഇതാണ് ബ്ലോക്ക് B1 ഉം B2 ഉം ആണെന്ന് പറയാം ഇതാണ് ബ്ലോക്ക് B1 B2 B3 അതിനാൽ ഈ പ്രശ്നത്തിന് എനിക്ക് B1 I എന്നതിന് ഒരു ശീർഷകം ഉണ്ടെന്ന് പറയാം ബി 2 ന് ഒരു ശീർഷകം ഉണ്ടായിരിക്കണം അവ തൊട്ടടുത്താണ് അതിനാൽ അവ ഒരുമിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു അവയുടെ അതിർത്തി പൂർണ്ണമായും അൺബ്ലോക്ക് ചെയ്തിരിക്കുന്നതായി നിങ്ങൾ കാണുന്നു കണക്ഷനായി നിങ്ങൾക്ക് മുഴുവൻ അതിർത്തിയും ഉപയോഗിക്കാം അതിനാൽ ഞാൻ രണ്ടിന്റെ ഭാരം നൽകുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ B1 B2 B3 അതിനാൽ B1 നും B2 നും ഇടയിൽ അതിന്റെ പകുതി മാത്രമേ ലഭ്യമാകുന്നുള്ളൂ ബാക്കി പകുതി B3 മായി പങ്കിടുന്നു അതിനാൽ ഞാൻ 1 ന്റെ ഭാരം നൽകുന്നു അതുപോലെ B1 നും B3 നും ഇടയിൽ ഞാൻ 1 ഭാരം നൽകുന്നു എന്നാൽ B2 നും B3 നും ഇടയിൽ മുഴുവൻ അതിർത്തിയും ലഭ്യമാണ് അതിനാൽ ഞാൻ 2 ഭാരം നൽകുന്നു അതിനാൽ ബ്ലോക്കുകൾക്കിടയിലുള്ള മുഴുവൻ അതിർത്തിയും റൂട്ടിംഗിന് ലഭ്യമാണോ അതോ ഭാഗികമായി മാത്രമേ ശരിയാണോ എന്നതിനെ ആശ്രയിച്ച് അതിനനുസരിച്ച് ഭാരം നിശ്ചയിക്കാം അതിനാൽ ഇതാണ് ചെക്കർ ബോർഡ് മോഡൽ അതിനാൽ ഇവിടെ ഞാൻ ഉദാഹരണമായി കാണിക്കുന്നു ഒരു ദീർഘചതുരാകൃതിയിലുള്ള പ്രദേശത്ത് 5 ബ്ലോക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ 1 2 3 4 5 6 7 8 എന്നിങ്ങനെ എത്ര മേഖലകളുണ്ട് അതിനാൽ 8 ലംബങ്ങളുണ്ട് അതിനാൽ എല്ലാ ലംബങ്ങളും ഭാഗികമായി തടഞ്ഞിരിക്കുന്നു അതിനാൽ അവ ഖരരൂപത്തിൽ കാണിക്കുന്നു ഇപ്പോൾ ഈ ഭാരങ്ങൾ ഈ 2 മേഖലകൾക്കിടയിൽ മുഴുവൻ അതിർത്തിയും പരസ്പര ബന്ധത്തിനായി ലഭ്യമാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഇത് 2 ആണ് ഈ 2 മേഖലകൾക്കിടയിൽ ഈ ബ്ലോക്ക് അതിർത്തിയെ ഭാഗികമായി തടയുന്നു അതിനാലാണ് ഭാരം 1 അതുപോലെ ഈ 2 ഭാരം 1 ആണ് ഈ 2 ഭാരം 1 പോലെയാണ് അതുപോലെ ഈ 2 ഈ 2 മേഖലകൾക്കിടയിൽ ലഭ്യമായ മുഴുവൻ അതിരുകളും 2 ആണ് മറ്റുള്ളവയെല്ലാം ഭാരം 1 അതിനാൽ സ്ഥലത്തിന്റെ കാര്യത്തിൽ ചെക്കർ ബോർഡ് മോഡൽ കൂടുതൽ കാര്യക്ഷമമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഗ്രാഫിലെ വെർട്ടീസുകളുടെ എണ്ണം വളരെ ചെറുതായിരിക്കും ഗ്രിഡ് ഗ്രാഫ് മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് നന്നായി ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന പ്രാതിനിധ്യത്തിലേക്ക് വരാം പ്രത്യേകിച്ച് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സെൽ റൂട്ടിംഗ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ റൂട്ടിംഗ് എന്ന് പറയാം ഒരു സാധാരണ സെൽ റൂട്ടിംഗ് പ്രശ്നത്തിൽ നമുക്ക് ഇവിടെ ലേബൽ ഉണ്ട് ഞാൻ 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ നൽകട്ടെ അതിനാൽ ഈ സെല്ലുകൾ വരികളായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സെൽ റൂട്ടിംഗ് പ്രശ്നമാണ് കൂടാതെ വരികൾക്കിടയിലുള്ള ചാനലുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു കൂടാതെ വശങ്ങളിലായി പൂർണ്ണ ഇഷ്ടാനുസൃത ഡിസൈൻ ശൈലിയും നിങ്ങൾ പരിഗണിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനും കഴിയും ഇവിടെ ഇതുപോലെ ബ്ലോക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുപോലെ ചില ഉദാഹരണങ്ങൾ എടുക്കാം അതിനാൽ ഇവിടെയും ഞാൻ ബ്ലോക്കുകൾക്കിടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇന്റർകണക്ഷൻ ചാനലുകളുണ്ട് അതിനാൽ ഇവിടെയുള്ളതുപോലുള്ള ചാനലുകളുടെ പരസ്പരബന്ധിത മേഖലകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും ഉദാഹരണത്തിന് ഇവിടെ ഒരു ചാനൽ ആകാം ഇവിടെ ഒരു ചാനൽ ആകാം ഇവിടെ ഒരു ചാനൽ ഇവിടെ ഒരു ചാനൽ ഇവിടെ ഒരു ചാനൽ വാസ്തവത്തിൽ ഈ മുഴുവൻ കാര്യവും ഒരൊറ്റ ചാനലായി കണക്കാക്കാം അതുപോലെ ഇതിനെ ചാനലുകളായി കണക്കാക്കാം ഇവയെല്ലാം ചാനലുകളാണ് അതുപോലെ ഈ വശവും ഇവയെല്ലാം ചാനലുകളാണ് അങ്ങനെ ഒരുപാട് ചാനലുകൾ ഉണ്ട് അതിനാൽ ചാനലുകൾ ഉണ്ട് ചില ചാനലുകൾ വിഭജിക്കുന്നു ഉദാഹരണത്തിന് ഈ ചാനലും ഈ ചാനലും ഇവിടെ വിഭജിക്കുന്നു ഈ ചാനലും ഈ ചാനലും വിഭജിക്കുന്നു ഈ ചാനലും ഈ ചാനലും വിഭജിക്കുന്നു ഈ ചാനലും ഈ ചാനലും വിഭജിക്കുന്നു അതിനാൽ ഈ ചാനലിനൊപ്പം 1 2 3 4 ചാനലുകൾ കൂടി ഉള്ള ഒരു കവലയുണ്ട് ചാനൽ ഇന്റർസെക്ഷൻ ഗ്രാഫ് അടിസ്ഥാനപരമായി ചാനലുകൾക്കിടയിലുള്ള ഇത്തരത്തിലുള്ള കവലയെ മാതൃകയാക്കുന്നു അതിനാൽ ഇവിടെ ഓരോ ശീർഷകവും ഒരു ചാനൽ കവലയെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ അരികുകൾ ചാനലുകളെ വലത് പ്രതിനിധീകരിക്കുന്നു അവയ്ക്കിടയിൽ ഒരു ചാനൽ കവലയുണ്ടെങ്കിൽ 2 ലംബങ്ങൾ ഒരു അരികിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ എഡ്ജ് ഭാരം ചാനലിന്റെ ശേഷിയെ പ്രതിനിധീകരിക്കുന്നു നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഇതുപോലൊരു ഉദാഹരണമുണ്ടെന്ന് കരുതുക നിങ്ങൾ ഇത് അവഗണിക്കുന്നു ഈ എംബഡഡ് ഗ്രാഫ് ഇവിടെ വീണ്ടും കാണിക്കുന്നു ഒരു ചതുരാകൃതിയിലുള്ള പ്രദേശത്ത് 5 ബ്ലോക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ ആ ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ ഇവയെല്ലാം ചാനലുകളുടെ ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം ചാനലുകളാണ് ഈ ചുവന്ന ഡോട്ടുകൾ ചാനലുകൾ തമ്മിലുള്ള കവലയെ സൂചിപ്പിക്കുന്നു ചാനൽ ഇന്റർസെക്ഷൻ ഗ്രാഫിൽ ആ വിവരങ്ങൾ മാത്രമേ എക്സ്ട്രാക്റ്റുചെയ്യൂ ചാനൽ വിവരങ്ങൾ ലംബങ്ങളായും 2 ചാനൽ കവലയായും എക്സ്ട്രാക്റ്റു ചെയ്തു അതിനിടയിൽ ഒരു അരികിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പൊതു ചാനൽ ഉണ്ട് ഇപ്പോൾ ചാനലിന്റെ വീതിയെ ആശ്രയിച്ചിരിക്കുന്നു അതിന് എത്ര വയറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വ്യത്യസ്ത അരികുകളിലേക്ക് കുറച്ച് ഭാരം നൽകാം ചാനൽ ഇന്റർസെക്ഷൻ ഗ്രാഫ് ആഗോള റൂട്ടിംഗിന് പ്രധാനപ്പെട്ട ചാനലുകളുടെയും കവലകളുടെയും ട്രാക്ക് നേരിട്ട് സൂക്ഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നു ആഗോള റൂട്ടിംഗിൽ ബന്ധിപ്പിക്കേണ്ട 2 പോയിന്റുകൾക്കിടയിലുള്ള ഏകദേശ പാത കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഉദാഹരണത്തിന് ഈ ചാനലിലെ പോയിന്റ് ഇവിടെയുള്ള ഒരു പോയിന്റിലേക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഏറ്റവും അടുത്തുള്ള ശീർഷകം തിരിച്ചറിയാൻ കഴിയും അതിനാൽ ഇവിടെയും ഏറ്റവും അടുത്തുള്ള ശീർഷകം കണ്ടെത്താനാകും അതിനാൽ ഈ 2 ലംബങ്ങൾക്കിടയിൽ ഒരു പാത കണ്ടെത്തുക എന്നതാണ് എന്റെ പ്രശ്നം ഇതിനർത്ഥം ഈ റൂട്ടിംഗ് ശരിയായി പൂർത്തിയാക്കാൻ ഏത് ചാനലുകളാണ് ഞാൻ പിന്തുടരേണ്ടതെന്ന് എനിക്ക് കണ്ടെത്താനാകുമെന്നാണ് ഇപ്പോൾ ഒരു ചെറിയ വിപുലീകരണം അതിനെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്നു ഇപ്പോൾ ഈ വിപുലീകൃത ചാനൽ ഇന്റർസെക്ഷൻ ഗ്രാഫിൽ ഞങ്ങൾ ചാനൽ കവലകളെ ലംബങ്ങളായി മാത്രമല്ല പിന്നുകളും വെർട്ടിസുകളായി ഉപയോഗിക്കുന്നു ഇപ്പോൾ ബാക്കിയുള്ളത് അതേപടി തുടരുന്നു അതുകൊണ്ട് ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതേ ഉദാഹരണം തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് കൂടാതെ ചിത്രീകരണത്തിനായി ചില പിന്നുകൾ കാണിക്കുന്നു ഒരു പിൻ ഉള്ളപ്പോഴെല്ലാം അനുബന്ധ ചാനൽ എഡ്ജിൽ ശീർഷകം ചേർക്കും എന്നതാണ് അതിനാൽ ഇപ്പോൾ എനിക്ക് പിൻ ദിസ് ഒരു പിൻ ഇതിലേക്ക് ബന്ധിപ്പിക്കണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള നോഡ് കണ്ടെത്തേണ്ടതില്ല പക്ഷേ ഈ പിൻക്ക് നേരിട്ട് അനുയോജ്യമായ ഒരു നോഡോ ശീർഷമോ എനിക്കുണ്ട് അതുകൊണ്ട് ഇതിനും ഇതിനും ഇടയിലുള്ള വഴി കണ്ടെത്തണം അതിനാൽ ഈ പാതയ്ക്കായി എനിക്ക് കഴിയുന്ന നിരവധി വഴികൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ചാനൽ ഇന്റർസെക്ഷൻ ഗ്രാഫിൽ ഒരു പാത കണ്ടെത്തുക എന്നതാണ് ആഗോള റൂട്ടിംഗ് പ്രശ്നം 2 ടെർമിനൽ വലകൾക്കായി അരികുകളുടെ കപ്പാസിറ്റി ലംഘിക്കരുത് മൾട്ടി ടെർമിനൽ വലകൾക്കായി ഞങ്ങൾ തുടർച്ചയായി പരിഗണിക്കുന്നു നമുക്ക് ഏറ്റവും കുറഞ്ഞ സ്റ്റെയ്നർ ട്രീയുടെ ഏകദേശ കണക്ക് ലഭിക്കും ഈ പ്രദേശം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നതിന് വളരെ ലളിതമായ ഒരു ഉദാഹരണം എടുക്കുന്നു അതിനാൽ നമുക്ക് ചാനലുകൾക്ക് പേരിടാം ഈ ചാനലിനെ നമുക്ക് C1 എന്ന് വിളിക്കാം നമുക്ക് അവയ്ക്ക് പ്രത്യേക C2 നൽകാം നമുക്ക് അതിനെ C3 എന്ന് വിളിക്കാം നമുക്ക് അതിനെ C4 എന്ന് വിളിക്കാം നമുക്ക് ഇതിനെ C5 C6 C7 C8 C9 C10 C11 C12 എന്ന് വിളിക്കാം ഉദാഹരണത്തിന് ഇവിടെ പിൻ ചെയ്യുക നമുക്ക് ഇതിനെ 1 എന്ന് വിളിക്കാം ഇത് ഇവിടെ ഒരു പിന്നിലേക്ക് കണക്റ്റുചെയ്യണം നമുക്ക് ഇതിനെ വിളിക്കാം 1 ഇവിടെ പിൻ ചെയ്യാം 2 ഇത് ഒരു പിന്നുമായി ബന്ധിപ്പിക്കണം ഇവിടെ ഇത് 2 നമുക്ക് ഇവിടെ മറ്റൊരു പിൻ എടുക്കാം 3 ഇവിടെ പിൻ എന്ന് പറയട്ടെ 3 ഇത് കണക്റ്റുചെയ്യണം 3 അതിനാൽ അത്തരത്തിലുള്ള നിരവധി വലകൾ ഉണ്ടാകും അതെ ഇവയെല്ലാം 2 ടെർമിനൽ നെറ്റ് ആണെന്ന് പറയാം നെറ്റ് നമ്പർ 1 നെറ്റ് നമ്പർ 2 നെറ്റ് നമ്പർ 3 എന്നിവയുണ്ട് അതിനാൽ ഈ ആഗോള റൂട്ടിംഗ് പ്രശ്നം അല്ലെങ്കിൽ അൽഗോരിതം ഔട്ട്പുട്ടായി എന്താണ് സൃഷ്ടിക്കുന്നത് അതിനാൽ ഞാൻ ചാനൽ ഇന്റർസെക്ഷൻ ഗ്രാഫ് മോഡൽ കാണിച്ചു നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കും അതിനെ ഒരു ഗ്രാഫായി പ്രതിനിധീകരിക്കുകയും ആ ഗ്രാഫിലൂടെ എന്തെങ്കിലും പാത കണ്ടെത്തുകയും ചെയ്യാം ഇനി പറയട്ടെഎനിക്ക് പോയിന്റ് 1 നെ പോയിന്റ് 1 ലേക്ക് ബന്ധിപ്പിക്കണമെന്ന് കരുതുക അതിനാൽ നെറ്റ് 1 ന് നിങ്ങൾ ഒരു പാത തിരിച്ചറിയുന്നു ഞാൻ പിന്തുടരുന്ന പാത ഇതായിരിക്കുമെന്ന് പറയുക അതായത് ഞാൻ C1 C3 ചാനലുകൾ പിന്തുടരും എനിക്ക് നഷ്ടമായ മറ്റൊരു ചാനൽ ഉണ്ട് അതിനെ നമുക്ക് C13 എന്ന് വിളിക്കാം N2 2 2 എന്നിവയ്ക്കായുള്ള C13 മറ്റൊരു കോളത്തിൽ ഈ പാത പിന്തുടരുമെന്ന് പറയാം അതിനാൽ N2 ആദ്യം C3 പിന്നെ C13 C9 C8 എന്നിവ പിന്തുടരും അപ്പോൾ N3 നന്നായി N3 ഞാൻ ഈ പാത പിന്തുടരുന്നുവെന്ന് പറയട്ടെ അതിനാൽ നെറ്റ് 3 C6 ലും C1 ലും C2 ലും ആരംഭിക്കും അതിനാൽ ഓരോ നെറ്റ്സിനും ഞാൻ ചാനലുകളുടെ ക്രമം ജനറേറ്റുചെയ്യുന്നത് പിന്തുടരേണ്ട ഏകദേശ പാതകളാണ് ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് എനിക്ക് ഒരു പൂർണ്ണമായ സ്പെസിഫിക്കേഷൻ ലഭിക്കുന്നു റൂട്ടിംഗ് സ്പെസിഫിക്കേഷൻ അതായത് ചാനൽ C1 എന്ന് പറയാം ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ ഈ വലകളിൽ 2 C1 വഴി കടന്നുപോകുന്നു അതിനാൽ ആദ്യത്തെ വലയ്ക്ക് അത് ഇവിടെ നിന്ന് വരുന്നു അത് ഇവിടെ പോകുന്നു രണ്ടാമത്തെ വലയ്ക്ക് അത് ഇവിടെ നിന്ന് വരുന്നു അത് ഇവിടെ പോകുന്നു അതിനാൽ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ ഒരു ചതുരാകൃതിയിലുള്ള പ്രദേശമാണ് അതിനാൽ പിന്നുകൾ മുകളിലോ താഴെയോ ആണെന്നും ട്രാക്കുകൾ ഇതുപോലെ സ്ഥാപിക്കുമെന്നും ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ നെറ്റ് ലിസ്റ്റിന്റെ ഈ ശ്രേണിയിൽ നിന്നും ആഗോള റൂട്ടിംഗിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളിൽ നിന്നും ഈ പ്രത്യേക ചാനൽ C1 നുള്ള C1 നുള്ള പൂർണ്ണമായ സ്പെസിഫിക്കേഷൻ ഞങ്ങൾ നേടുന്നു ഇത് വിശദമായ റൂട്ടറുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ ഇപ്പോൾ വിശദമായ റൂട്ടറിന് ഈ ചാനലിനായുള്ള കൃത്യമായ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കും അത് എവിടെ നിന്ന് വരുന്നു എന്നതും മറ്റും എത്ര വലകൾ അതിലൂടെ കടന്നുപോകുന്നു ഇതാണ് അടിസ്ഥാന ആശയം നിങ്ങൾക്ക് എല്ലാ ചാനലുകൾക്കുമുള്ള വിവരങ്ങൾ സമാഹരിക്കാൻ കഴിയുന്ന തരത്തിൽ ആഗോള റൂട്ടർ ഇതുപോലുള്ള വിവരങ്ങൾ നൽകും കൂടാതെ ഓരോ ചാനലിൽ നിന്നുമുള്ള വിവരങ്ങൾ വിശദമായ റൂട്ടർ വ്യക്തിഗതമായും സ്വതന്ത്രമായും പരിഹരിക്കും അതിനാൽ ഇത് ഒരു വിഭജിച്ച് സമന്വയിപ്പിക്കുന്ന പ്രശ്നം പോലെയാണ് അതിനാൽ അടുത്ത പ്രഭാഷണത്തിനായി നമ്മൾ കൂടുതൽ ആഗോള റൂട്ടിംഗ് അൽഗോരിതങ്ങൾ നോക്കണം അതിനാൽ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു തുടർന്ന് അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ വിശദമായ റൂട്ടിംഗിലേക്ക് നീങ്ങും